പ്രിയ പങ്കാളികളെ സ്വാഗതം നാലാം ആഴ്ചയിലെ നാലാമത്തെ മൊഡ്യൂളിൽ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഉയർന്നുവരുന്ന ഒരു വശമാണ് മുമ്പത്തെ മൊഡ്യൂളുകളിൽ പാരമ്പര്യേതര ആശയവിനിമയത്തിന്റെ പഠനങ്ങളുമായി പരമ്പരാഗതമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ വശങ്ങൾ നമ്മൾ പരിശോധിക്കും സമൂഹം സാങ്കേതികവിദ്യയുടെ ഒരു ഇന്റർഫേസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ പുതിയ മാനങ്ങൾ ചേർക്കുന്നതായി നമുക്ക് കാണാം ഇതിൽ ഒരു പ്രധാന വശമായ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നോൺ വെർബൽ ആശയവിനിമയത്തിൽ ഈ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയപ്പോൾ അതിന് വ്യത്യസ്ത പ്രതികരണങ്ങൾ ലഭിച്ചു ഒരു വശത്ത് ഇത് സുസ്ഥിര ഗവേഷണ പരിപാടികളിലേക്ക് നയിച്ചു അതേസമയം മാധ്യമ പ്രവർത്തകരെയും ഇത് ആകർഷിച്ചു അതിന്റെ ഫലമായി വിവിധ പ്രശസ്തരുടെ ശരീരഭാഷ നോക്കുന്ന പതിവ് കോളം നൽകുന്നു വ്യത്യസ്ത കൈനെസിക്സ് സാന്നിധ്യത്തോടെ അനുബന്ധ മേഖലകളിലെ അഭൂതപൂർവമായ വികസനം നോക്കുമ്പോൾ ഈ പരമ്പരാഗത പേഴ്സണലൈസേഷൻ കാലഹരണപ്പെട്ടുവെന്ന് മാത്രമല്ല പല തരത്തിൽ അനാവശ്യമായിത്തീർന്നിരിക്കുന്നു എന്നും മനസ്സിലാക്കാനാകും കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തന്ത്രങ്ങൾ വികസിപ്പിക്കേണ്ട ഒരു വ്യക്തിയെന്ന നിലയിലും ഡിജിറ്റൽ അനുഭവം മെച്ചപ്പെടുത്തുന്നതാണ് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജിനെക്കുറിച്ചുള്ള മേഖലയിൽ ഇതിലൂടെ ഒരു നെഗറ്റീവ് ബോഡി സ്വഭാവത്തിൽ നിന്ന് മാറാമെന്നും പോസിറ്റീവ് സ്വഭാവം വളർത്തിയെടുക്കാം എന്നും അത് ഒരു പുതിയ വൈദഗ്ധ്യമായി നമുക്ക് പഠിക്കാമെന്നും നിർദ്ദേശിക്കുന്നു ശരീരഭാഷയുടെ പരമ്പരാഗത വശങ്ങളായ കൈനെസിക്സ് മുഖഭാവങ്ങൾ വോയ്സ് ടോൺ തുടങ്ങിയവയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അവ നമ്മുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും നമ്മുടെ മനസ്സിന്റെ സൂചനയാണെന്നും പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ഈ സൂചനകൾ ഏതെങ്കിലും ആശയവിനിമയ പ്രക്രിയയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം പൂർത്തിയാക്കുന്നതിന് ഉപയോഗിക്കുകയും ശരിയായ ഫീഡ്ബാക്ക് സൃഷ്ടിക്കുന്നതിന് അവ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഫീഡ്ബാക്കിന്റെ കാര്യത്തിലും സന്ദേശം പൂർണ്ണമായും മനസിലാക്കുന്നതിലും ഇവ വിലയേറിയ സൂചനകളും നൽകുന്നു ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ ഈ സഹായങ്ങൾ നമുക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനാവില്ലെന്ന് കാണാൻ കഴിയും ചില സമയങ്ങളിൽ ഡിജിറ്റൽ യുഗം ഈ സഹായങ്ങളെ നശിപ്പിക്കുകയും അർത്ഥത്തിന്റെ പെട്ടെന്നുള്ള കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നു എന്നിരുന്നാലും ഈ സഹായങ്ങളെ കൊല്ലുന്നതിനുപകരം ഡിജിറ്റലൈസ്ഡ് യുഗം ഈ സഹായങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തുവെന്ന് ഞാൻ പറയും ഫലപ്രദവും ബുദ്ധിപരവുമായ ആശയവിനിമയത്തിന് ഇത് വ്യത്യസ്തമായ ഒരു കൂട്ടം സൂചനകൾ നൽകി ആശയവിനിമയത്തിന്റെ ഏതെങ്കിലും വശങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അത് നടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് തികച്ചും വേർതിരിക്കാനാവില്ല ഇന്നത്തെ സന്ദർഭം നമ്മുടെ സാങ്കേതിക ധാരണയാൽ രൂപപ്പെടുത്തിയിരിക്കുന്നു സാങ്കേതികവിദ്യയുമായി നേരിട്ട് ബന്ധമില്ലാതെ നമുക്ക് ഇന്ന് ഒരു ആശയവിനിമയവും സങ്കൽപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല ശരീരഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് ഒരു അധിക മാനം നൽകുന്നത് സ്വാഭാവികം ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് തുടക്കത്തിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം ട്രാക്കു ചെയ്യാൻ വേണ്ടിയാണ് ആരംഭിച്ചത് പേജുകൾ ബ്രൌസു ചെയ്യുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു വെബ്സൈറ്റ് ഉപയോക്താക്കൾക്ക് ഉള്ളടക്കത്തിൽ മടുപ്പുണ്ടോ അല്ലെങ്കിൽ അവർ നിരാശരാണോ അല്ലെങ്കിൽ അവർ ഇടപഴകുന്നുണ്ടോ എന്നറിയാൻ ഇത് സഹായിച്ചു കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ആശയവിനിമയത്തിലെ മിക്ക സിദ്ധാന്തങ്ങളും നോൺ വെർബൽ ആശയവിനിമയത്തിനേ ഒരു 'ബ്ലാക്ക് ബോക്സിലേക്ക്' ആണ് കൂടാതെ "നോൺവെർബൽ സൂചകങ്ങൾ ആശയവിനിമയപരമായ സാമൂഹിക പ്രവർത്തനങ്ങളുമായി നേരിട്ടും പ്രത്യേകമായും ബന്ധിപ്പിച്ചിരിക്കുന്നു അത്തരം സൂചനകളുടെ അഭാവം പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയുന്നു" ആണ് എന്നാണു വാൾട്ടർ പറയുന്നത് അവരുടെ വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ സിഎംസിയെ അഭിസംബോധന ചെയ്യുന്ന ആശയവിനിമയ സിദ്ധാന്തങ്ങൾ പ്രധാനമായും ഒരു ആശയവിനിമയ സംഭവത്തിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് നോക്കി ഇത് പാരമ്പര്യേതര നോൺ വെർബൽ സൂചകങ്ങളില്ലാതെ സംഭവിക്കുന്നു ഈ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് നിരവധി സൈദ്ധാന്തിക സമീപനങ്ങളുണ്ടെങ്കിലും എൻവിസിയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളും തമ്മിൽ അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നു തുടക്കത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളിലേക്ക് നയിച്ച ഈ മൂന്ന് സിദ്ധാന്തങ്ങളെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തേത് ഒരു സാമൂഹിക സാന്നിധ്യ സിദ്ധാന്തമാണ് രണ്ടാമത്തേത് സാമൂഹിക സമ്പർക്ക സിദ്ധാന്തത്തിന്റെ അഭാവവും മൂന്നാമത്തേത് മാധ്യമ സമ്പന്ന സിദ്ധാന്തവുമാണ് ആദ്യത്തെ സിദ്ധാന്തം സാമൂഹിക സാന്നിധ്യ സിദ്ധാന്തം ഷോർട്ട് വില്യംസ് ക്രിസ്റ്റി എന്നിവർ 1976 ൽ മുന്നോട്ടുവച്ചു ഈ സിദ്ധാന്തത്തിന് കീഴിലുള്ള സൈദ്ധാന്തിക സമീപനങ്ങൾ ആരംഭിക്കുന്നത് മുഖാമുഖം ആശയവിനിമയത്തിൽ നിന്ന് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലേക്ക് ശ്രദ്ധേയമായ മാറ്റം വന്നപ്പോഴാണ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലേക്ക് മാറിയപ്പോൾ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ പല സൂചനകളും ഇല്ലാതാകാൻ തുടങ്ങിയതായി കണ്ടെത്തി ഉദാഹരണത്തിന് വീഡിയോ കോൺഫറൻസിംഗിൽ ഹാപ്റ്റിക്സ് ഇല്ലായിരുന്നു പ്രോക്സിമിക്സും ഇല്ലായിരുന്നു ഓഡിയോ കോൺഫറൻസുകളിൽ കൈനെസിക്സിന് പോലും അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ചില പരമ്പരാഗത ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക സാന്നിധ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ പരമ്പരാഗത സൂചകങ്ങൾ നമ്മളെ സഹായിച്ചതായി സൈദ്ധാന്തിക ഈ സമീപനത്തിന് തോന്നി ഉദാഹരണത്തിന് ഇടപെടുന്ന ആളുടെ മനോഭാവത്തിൽ സൌഹൃദത്തിന്റെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് സൂചിപ്പിക്കാൻ കഴിയും രണ്ടാമത്തെ സൈദ്ധാന്തിക സമീപനം ആദ്യത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല 1980 കളുടെ തുടക്കത്തിൽ കീസ്ലർ സീഗൽ മക്ഗുവെയർ എന്നിവർ സാമൂഹിക സമ്പർക്ക സിദ്ധാന്തത്തിന്റെ അഭാവം നിർദ്ദേശിച്ചു മുഖാമുഖ ആശയവിനിമയത്തിന് ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങൾ വ്യത്യസ്ത ആളുകൾ ഇടപഴകുന്ന ആശയവിനിമയത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം സ്ഥാപിക്കുന്നുവെന്നും സാമൂഹിക സ്വഭാവം പങ്കെടുക്കുന്നവരെ മാനദണ്ഡപരമായ പെരുമാറ്റം എന്താണെന്ന് അനുമാനിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നു എന്നും ഈ സിദ്ധാന്തം വിശദീകരിച്ചു ഈ സാമൂഹിക സന്ദർഭത്തിന്റെ അഭാവത്തിൽ പങ്കെടുക്കുന്നവർ വ്യക്തിഗതമല്ലാത്തവരാണ് അവർ സ്വയം പെരുമാറുന്ന രീതിയിലാണ് പെരുമാറുന്നത് കാരണം മറ്റുള്ളവരുടെ പെരുമാറ്റം നോക്കാനും സൂചനകൾ സ്വീകരിക്കാനും ഒരേ സമയം അവർക്ക് അവസരമില്ല അത് അസാധാരണമായിരിക്കും ഈ രണ്ട് സിദ്ധാന്തങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്നാമത്തെ സൈദ്ധാന്തിക സമീപനം അല്പം വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ കഴിയും മാധ്യമ സമ്പന്നത സിദ്ധാന്തം ഡാഫ്റ്റും ലെംഗലും 1984 ൽ ഒരു പ്രബന്ധത്തിൽ മുന്നോട്ടുവച്ചു തുടർന്ന് അവർ 1986 ലും ഇത് വിപുലീകരിച്ചു ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങൾ പരമ്പരാഗതമായി മനസ്സിലാക്കുന്നതുപോലെ ഒന്നിലധികം സൂചകങ്ങളുടെ സഹായത്തോടെ സന്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നു ഈ ഒന്നിലധികം സൂചകങ്ങൾ സന്ദേശത്തിന് ഒരു പ്രത്യേക അർഥ സമൃദ്ധി നൽകുന്നുവെന്നും വ്യക്തമാണ് അതിനാൽ സന്ദേശത്തിന്റെ ഗ്രാഹ്യം എളുപ്പമാകും ആദ്യത്തെ രണ്ട് സൈദ്ധാന്തിക സമീപനങ്ങൾ സാമൂഹിക സാന്നിധ്യ സിദ്ധാന്തവും സാമൂഹിക സമ്പർക്ക സിദ്ധാന്തത്തിന്റെ അഭാവവും സാമൂഹിക ഇടപെടലിന്റെ അഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാധ്യമ സമ്പന്നത സിദ്ധാന്തം സന്ദേശത്തിൻറെ വ്യക്തിഗത തലത്തിലുള്ള ഒരു ഗ്രാഹ്യവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു 'ബ്ലാക്ക് ബോക്സ്' സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സൈദ്ധാന്തിക സമീപനങ്ങൾ വളരെ വേഗം ഹൈപ്പർ പേഴ്സണൽ സിഎംസിയുടെയും സോഷ്യൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ എസ്ഐപി സിദ്ധാന്തങ്ങളുടെയും അഡാപ്റ്റീവ് മോഡലുകളായി മാറി വ്യത്യസ്ത പ്രൊഫഷണൽ ക്രമീകരണങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണ സാങ്കേതിക വിദ്യയുമായി ഉള്ള നമ്മുടെ മനോഭാവവും ബന്ധങ്ങളും മാറുന്നന്നതിനൊപ്പം മാറി ഈ കാഴ്ചപ്പാടുകൾ മാറുന്ന എസ്ഐപി സിദ്ധാന്തങ്ങളിൽ പ്രതിഫലിക്കുന്നു ഈ സൈദ്ധാന്തിക സമീപനങ്ങൾ അനുസരിച്ച് നോൺ വെർബൽ സൂചകങ്ങളുടെ അഭാവത്തിലൂടെ ഉപയോക്താക്കൾ ചൂഷണം ചെയ്യുകയോ അവയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു തുടർന്ന് അവർക്ക് വ്യത്യസ്ത സൂചകങ്ങൾ വികസിപ്പിക്കാനും കഴിയും ഈ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് സിഎംസിയിൽ ഇപ്പോഴും ആധിപത്യം പുലർത്തുന്ന ക്യൂ ക്രോണമിക്സ് ആണ് ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങളെക്കുറിച്ചുള്ള പുതുതായി ഉയർന്നുവരുന്ന ധാരണയുടെ ഭാഗമായി ക്രോണമിക്സ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു പക്ഷേ അത് സാംസ്കാരിക ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സിഎംസിയുടെ പശ്ചാത്തലത്തിലുള്ള ഈ സൈദ്ധാന്തിക സമീപനങ്ങൾ കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ആശയവിനിമയത്തിൽ പോലും ക്രോണമിക്സ് ലഭ്യമാണെന്ന് അഭിപ്രായപ്പെടുന്നു അതേസമയം സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നമുക്ക് ചില സൂചകങ്ങൾ വീണ്ടും അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്ത സൂചകങ്ങൾ സൃഷ്ടിക്കാനോ കഴിയും എന്നും അത് ആളുകൾക്ക് മനസിലാക്കാനും പരമ്പരാഗത സൂചകങ്ങൾ മാറ്റിസ്ഥാപിക്കാനും കഴിയും എന്ന് എന്ന് നമുക്ക് കാണാം ഉദാഹരണത്തിന് ഇമോട്ടിക്കോണുകൾ

ശരീര സ്വഭാവത്തിലൂടെ ഒരാൾ ബാഹ്യ സന്ദേശങ്ങൾ അയയ്ക്കുന്നുവെന്ന് ശരീരഭാഷ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു ശരീരഭാഷയെക്കുറിച്ചുള്ള ഗ്രാഹ്യം നമ്മുടെ മോഡുകളും മനോഭാവങ്ങളും വികാരങ്ങളും മറ്റേ വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ശരീരഭാഷ ആന്തരിക സന്ദേശങ്ങൾ അയയ്ക്കുന്നുവെന്ന് ശാസ്ത്ര ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നു കൂടാതെ ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ മാത്രമല്ല നമ്മുടെ മനോഭാവങ്ങളെ സ്വാധീനിക്കാനും പുനർനിർമ്മിക്കാനും ഉപയോഗിക്കാം ഉദാഹരണത്തിന് നമ്മൾ ഒരു നല്ല ശരീരഭാഷ നിലനിർത്തുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ വികാരങ്ങൾക്ക് പോസിറ്റീവ് മാറ്റം ഉണ്ടാകും ശരീരവും തലച്ചോറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് എല്ലായ്പ്പോഴും വിശ്വസിച്ചിരുന്ന പരമ്പരാഗത ധാരണയ്ക്ക് പുറമെ ഈ ശാസ്ത്രീയ ഗവേഷണം ശക്തിപ്പെട്ടു ഈ സമയത്ത് നമുക്ക് എൻഎൽപിയെയോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിനെയോ വീണ്ടും പരാമർശിക്കാൻ കഴിയും അത് മനസ്സും ശരീരവും പരസ്പരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ചലനാത്മകത പ്രധാനമായി തുടരുന്നു വിവിധ ഗവേഷകർ ഇത് ചൂണ്ടിക്കാണിക്കുന്നു 1988 ൽ ഹെസ്സി വെർണർ ആൾട്ട്മാൻ എന്നിവർ പ്രസിദ്ധീകരിച്ച ഒരു പ്രത്യേക ഗവേഷണത്തെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ ഉപയോക്താക്കളും സമയ സ്റ്റാമ്പുകൾ പരിശോധിക്കുന്നതിനാൽ ഇ മെയിലിന്റെ ക്രോണമിക്സ് സുപ്രധാനമായ നോൺ വെർബൽ സൂചകങ്ങളാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു പ്രതികരണം ലഭിച്ച സമയത്തോടൊപ്പം മറുപടി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസമുണ്ടോയെന്നും അവർ നോക്കുന്നു അതിനാൽ ഒരു മറുപടി രൂപീകരിക്കുന്നതിനും ഒരു ഇ മെയിലിലേക്ക് മറുപടി പോസ്റ്റുചെയ്യുന്നതിനും റിസീവറിന് എടുക്കുന്ന സമയം സ്വീകർത്താവിന് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ പ്രാപ്തമാക്കുന്നു ഈ അഭിപ്രായങ്ങൾ പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമെന്നും ഈ ഗവേഷണം സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് പ്രതികരണങ്ങളുടെ കാലതാമസത്തിന് പക്ഷപാതപരമായ ആട്രിബ്യൂഷനുകൾ ഉണ്ടാകും സാഹചര്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് പകരം വ്യക്തിപരമായ പരാജയങ്ങളെ കാരണങ്ങളായി നമുക്ക് അനുമാനിക്കാം ഈ പക്ഷപാതിത്വവും ആദ്യം നെഗറ്റീവ് വശത്തേക്ക് നോക്കാനുള്ള മനുഷ്യന്റെ പ്രവണതയും ഏത് പ്രൊഫഷണൽ സാഹചര്യത്തിലുമുള്ള പ്രാരംഭ വിശ്വാസത്തെ ഇല്ലാതാക്കും അതിനാൽ ഇ മെയിലിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ ക്രോണമിക്സ് പ്രധാനമാണെന്ന് ഈ ഗവേഷണങ്ങൾ നമ്മോട് പറയുന്നു ഇമോട്ടിക്കോണുകളുടെ ഉപയോഗമാണ് ടെക്സ്ച്വൽ പാരലംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റൊരു വശം 1990 കളിൽ ജപ്പാനിൽ നിന്ന് ഉത്ഭവിച്ച ഇമോട്ടിക്കോണുകൾ ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട് ഇവയ്ക്കു ഇപ്പോൾ വ്യാപകമായ സാന്നിധ്യമുണ്ട് ഇവ ഓൺലൈൻ ആശയവിനിമയത്തിൽ വികാരങ്ങളും ശബ്ദവും അറിയിക്കുന്നു ഇവ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ് ഉദാഹരണത്തിന് വാക്കുകൾക്കും ശൈലികൾക്കും ചുറ്റുമുള്ള നക്ഷത്രചിഹ്നത്തിന്റെ അർത്ഥമെന്താണ് അല്ലെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നത് വഴക്കു പറയുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ബോഡി ലാംഗ്വേജ് പോലുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാക്യമാണ് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് 2009 ൽ സ്റ്റീവൻസ് വുഡ്സ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമാണ് സ്റ്റീവൻ വുഡ്സ് ഉപഭോക്താക്കളുടെ ഓൺലൈൻ പെരുമാറ്റത്തിൽ ട്രാക്കുചെയ്യാവുന്ന പാറ്റേണുകൾ വിവരിക്കാൻ ആണു അദ്ദേഹം ഈ വാചകം ഉപയോഗിച്ചത് സ്റ്റീവൻ വുഡ്സ് അഭിപ്രായപ്പെട്ടത് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് ഒരു കലയാണ് മാത്രമല്ല അവരുമായി മികച്ച ആശയവിനിമയം നടത്താനുള്ള ബിസിനസ്സിൽ മികച്ച ആശയവിനിമയം നടത്താനും വാങ്ങുന്നയാളുടെ സിഗ്നലുകളും ഉദ്ദേശ്യങ്ങളും കണ്ടെത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും ചുറ്റുമുള്ള ഒരു ശാസ്ത്രമാണ് ഇൻറർനെറ്റിന്റെ വരവോടെ ഒരു പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച പരിവർത്തനവും വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിനുമുള്ള വിവിധ പുതിയ മാർഗ്ഗങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിപണനക്കാർ സെയിൽസ് പ്രൊഫഷണലുകൾ അവർ സേവിക്കുന്ന ഓർഗനൈസേഷനുകൾ ഇവരെക്കുറിച്ച് പുനർചിന്തനം നടത്തണം എന്നുമാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് കൃത്യമായി എന്താണ് സൂചിപ്പിക്കുന്നത് ഒരു വെബ്സൈറ്റിലോ അപ്ലിക്കേഷനിലോ ഒരു ഉപയോക്താവ് നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും ആംഗ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു അവർ എത്ര വേഗത്തിൽ ഏത് കോണുകളിൽ നിന്ന് മൌസ് നീക്കുന്നു എവിടെ ക്ലിക്കു ചെയ്യുന്നു എവിടെയാണ് അവർ ഒരു സ്ക്രോളിൽ ചുറ്റി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് അവർ ഉപകരണങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ടാപ്പുചെയ്യുന്ന നിരക്ക് സമാനമായ മറ്റ് കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് ആണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ആശങ്കകൾ അടിസ്ഥാനപരമായി ആരംഭിച്ചത് വിപണനത്തിനായുള്ള വിഭവങ്ങളുടെ ഓൺലൈൻ ലഭ്യത ടാപ്പുചെയ്യാൻ ആഗ്രഹിക്കുന്ന വിൽപ്പനക്കാരായ ആളുകളിലാണ് അതിനാൽ ക്രമേണ ഉപഭോക്തൃ സ്വഭാവത്തെക്കുറിച്ചുള്ള ഡാറ്റയും അനുബന്ധ വിവരങ്ങളും ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ വിൽപ്പനയും ഫീഡ്ബാക്ക് സംവിധാനങ്ങളും കൂടുതലായി സൃഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി കമ്പനി നയങ്ങൾ മാനേജുചെയ്യുന്ന ആളുകൾ ഓൺലൈൻ പ്രക്രിയകളുടെ ഭാഗമായ "സൂക്ഷ്മ സിഗ്നലുകൾ പിടിച്ചെടുക്കുക മനസിലാക്കുക പ്രോസസ്സ് ചെയ്യുക" എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങി അവ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് എന്നറിയപ്പെട്ടു ഡിജിറ്റൽ പ്രൊഫൈലിന്റെ സൃഷ്ടി പ്രാഥമികമായി നടത്തിയത് വിൽപ്പനക്കാരാണ് എന്നാൽ അർത്ഥങ്ങളുടെ സഹായത്തോടെ വളരെ വേഗം ഇത് നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ തലങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ ഡിജിറ്റൽ പ്രൊഫൈലിന്റെ സഹായത്തോടെ ഒരാൾക്ക് നമ്മുടെ താൽപ്പര്യത്തെക്കുറിച്ചും ഉദ്ദേശ്യങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും മാത്രമല്ല ഒരു ഓൺലൈൻ ജിജ്ഞാസ കാണിച്ചേക്കാവുന്ന മറ്റേതൊരു പ്രശ്നത്തെക്കുറിച്ചും വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും അതിനാൽ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജും അതിന്റെ ഗ്രാഹ്യവും അർത്ഥവത്തായ കാമ്പെയ്നുകൾക്കും ചോദ്യങ്ങൾക്കും കാരണമാകുന്നു നോളജ് സ്റ്റോം എന്നിവർ നടത്തിയ 2007 ലെ ഒരു സർവേ മാറിക്കൊണ്ടിരിക്കുന്ന വിൽപ്പന ലോകത്തെ അംഗീകരിച്ചു 93 ശതമാനം ഉപഭോക്താക്കളും ഓൺലൈൻ വിവരങ്ങൾ മറ്റേതൊരു ഉറവിടത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളെക്കാൾ വിലപ്പെട്ടതാണെന്ന് കരുതുന്നു ഉദാഹരണത്തിന് പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ്ബുക്കുകൾ അല്ലെങ്കിൽ മറ്റ് അച്ചടിച്ച പബ്ലിസിറ്റി മെറ്റീരിയൽ നൽകുന്ന വിവരങ്ങൾ 84 ശതമാനം ഉപഭോക്താക്കളും വിവരത്തിനായി പര്യവേക്ഷണം ആരംഭിക്കുന്നതിന് ഒരു പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചു ഏതാണ്ട് 75 ശതമാനം വാങ്ങലുകാരും അവരുടെ വാങ്ങൽ വിവരങ്ങളുടെ കാലയളവ് ഓൺലൈനിൽ ശേഖരിക്കുന്നു കൂടാതെ നാലിൽ അഞ്ച് ഉപഭോക്താക്കളും പുതിയ വിവരങ്ങൾക്കായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെബ് ഉപയോഗിക്കുന്നു ഈ കണ്ടെത്തലുകൾ 2007 ലെ ഒരു സർവേയിൽ നിന്നുള്ളതാണ് അതിനുശേഷം സാങ്കേതികവിദ്യയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം അതിനാൽ പരസ്പര സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ സാങ്കേതികവിദ്യയുടെ സമകാലിക സ്വാധീനം നമുക്ക് ഊഹിക്കാനാകും അതിനാൽ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് സമകാലീന ഗവേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതേസമയം ഡിജിറ്റൽ ലോകം പ്രധാനമാണെന്നും ഡിജിറ്റൽ ബോഡി ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം നിർദ്ദേശിക്കുന്നതിൽ എല്ലാ ഗവേഷണങ്ങളും ഏകകണ്ഠമാണ് അതിന്റെ പ്രയോഗക്ഷമതയെക്കുറിച്ച് ചില പ്രത്യേക റിസർവേഷനുകൾ ഉണ്ട് പ്രത്യേകിച്ചും ആ പഠനത്തെ കേന്ദ്രീകരിച്ച് മനുഷ്യന്റെ വികസനവുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ സാങ്കേതികവിദ്യ പ്രാപ്തമാക്കിയ ആശയവിനിമയങ്ങളും വരുമാന ഇടപാടുകളും നമ്മുടെ സ്വഭാവങ്ങളിൽ വിവിധ മാറ്റങ്ങൾ വരുത്തുന്നു തൊഴിലുകൾ മാത്രമല്ല സേവനങ്ങളും ഡിജിറ്റൽ രീതികളിലേക്ക് മാറുന്നതായി നമുക്ക് കാണാം ഇത് തീർച്ചയായും സൌകര്യപ്രദമാണ് ഇത് പെട്ടെന്നുള്ളതാണ് ഇത് സമയം ലാഭിക്കുന്നു മാത്രമല്ല ഇത് ചെലവ് കുറഞ്ഞതുമാണ് സാധാരണ അത് സാധാരണക്കാരുടെ പരിധിക്കുള്ളിലാണ് എന്നിരുന്നാലും പ്രത്യേകിച്ചും ക്ലാസ് റൂം സാഹചര്യങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് അവിടെ കണ്ണിന്റെ സമ്പർക്കം പ്രോക്സെമിക്സ് ശബ്ദ വ്യത്യാസങ്ങൾ തുടങ്ങിയവയിലൂടെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരമ്പരാഗതമായി ഫീഡ്ബാക്ക് സ്വീകരിക്കുന്ന രീതികൾ ഇല്ലാതാകുന്നു ഇത് ഇല്ലെങ്കിൽ അവരുടെ വികസനത്തിന് ഹാനികരമായേക്കാം ഡിജിറ്റൈസേഷൻ കുറവ് തൽസമയ ഇടപഴകലുകൾക്ക് കാരണമായേക്കാം ഇത് ഒരു ക്ലാസ് മുറിയിലെ ശരീരഭാഷയുമായി പൊരുത്തപ്പെടാനുള്ള അധ്യാപകന്റെ അവസരത്തെയും ഇടപെടലിനെയും ബാധിച്ചേക്കാം അതേസമയം ഡിജിറ്റൽ രീതികളുടെ സുഖസൌകര്യങ്ങളുടെ അഭാവമോ അതിൻറെ ഉപയോഗത്തിലെ കഴിവില്ലായ്മയോ ചില റിസർവേഷനുകൾക്ക് കാരണമായേക്കാമെന്ന് നമ്മൾ സമ്മതിക്കണം ഈ രസകരമായ വീഡിയോയിൽ ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് സംക്ഷിപ്തമായി വിശദീകരിച്ചിട്ടുണ്ട് അതിനാൽ മനുഷ്യ ശരീരഭാഷ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും മുഖാമുഖ ആശയവിനിമയത്തിന്റെ 80 ശതമാനം വരെ ശരിക്കും ശരീരഭാഷയിലൂടെയാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ പലപ്പോഴും ആഗോള വെർച്വൽ ടീമുകളിൽ ആയിരിക്കുമ്പോൾ 80 ശതമാനം വരെ നമ്മൾ ഒരേ മുറിയിൽ ഇല്ല അത് ശരിയാണ് നമ്മൾ മനസ്സിലാക്കണം ആളുകളെ വായിക്കാനുള്ള പുതിയ സൂചനകളും സിഗ്നലുകളും എന്തൊക്കെയാണ് അവർ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണം അവർ ആ ഇ മെയിൽ എപ്പോൾ എഴുതി അത് എപ്പോൾ അയച്ചു എന്നിവയൊക്കെ മനസ്സിലാക്കണം ഒരു നിശ്ചിത സമയത്ത് ഡിജിറ്റൽ സംഭാഷണങ്ങളിലെ പുതിയ മറഞ്ഞിരിക്കുന്ന സൂചനകളോ സിഗ്നലുകളോ ആണ് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇ മെയിലിന്റെ സമയം പറഞ്ഞത് എന്ന് മനസിലാക്കാൻ അവ നമ്മളെ സഹായിക്കുന്നു അതെ അല്ലെങ്കിൽ ഒരു സിഇഒ ഒരു ഫുൾ സ്റ്റോപ്പ്നൊപ്പം ഓക്കേ എന്ന് എഴുതുകയാണെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പ് എന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ അംശം മുതൽ ചിഹ്നനം വരെ എല്ലാം സംഭാഷണങ്ങളിൽ നമ്മൾ സിസി ആരെയൊക്കെ ആണ് വയ്ക്കുന്നത് പ്രതികരണത്തിന്റെ സമയം ഇവയെല്ലാം ഡിജിറ്റൽ ഭാഷയുടെ സിഗ്നലുകൾ ആണ് മിക്കപ്പോഴും മറ്റൊരാൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കൃത്യമായി അറിയാൻ കഴിയും ശരിയാണ് എന്നാൽ ഡാറ്റയിൽ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടത് ആ വ്യക്തി ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയും ഉത്കണ്ഠയും ആശയക്കുഴപ്പവും വളരെയധികം ഉണ്ട് മനുഷ്യ ശരീരഭാഷയിൽ നാം ഉപയോഗിക്കുന്ന സന്ദർഭം ഉറ്റുനോക്കൽ കണ്ണ് നോഡ് ഷേക്ക് എന്നിവ നമുക്കില്ലാത്തതിനാലാണ് ഇത് ഉണ്ടാകുന്നത് അതിനാൽ ആളുകൾ അവരുടെ സ്വന്തം ഡിജിറ്റൽ ശൈലികളെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് ബുദ്ധിപരമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ആളുകളെ സഹായിക്കുന്ന കുറച്ച് മികച്ച പരിശീലന മാർഗങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാമോ തീർച്ചയായും ആദ്യത്തേത് സംക്ഷിപ്തത ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നതാണ് മിക്കപ്പോഴും നമ്മൾ ഏറ്റവും ചെറിയ ടീമിനായി പോകുന്നു എന്റെ പ്രിയപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് സിഎംഎൽ ആരോ ഒരു വലിയ പ്രോജക്റ്റിനെക്കുറിച്ച് ടീമിൽ നിന്ന് ഒരു വലിയ ഡോക്യുമെൻറ്റ് അയച്ചു കൂടാതെ ഒരു വൺ ലൈനർ എഴുതി അത് അവളുടെ തലയിൽ ഒരു ക്രമരഹിതമായ ചിന്തയായിരുന്നു ഒരു മീറ്റിംഗിൽ അവൾ ഇത് പറഞ്ഞാൽ ആളുകൾ ഇത് ഗൌരവമായി കാണില്ല കാരണം ഇത് ഒരു ആശയം മാത്രമാണെന്ന് അവർക്കറിയാം എന്നിരുന്നാലും പെട്ടെന്ന് ഒരു വൺ ലൈനർ ഇമെയിൽ ഇപ്പോൾ അയച്ചപ്പോൾ അവളുടെ സന്ദർഭം ശരിക്കും കാണാത്തതിനാൽ അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു വർക്ക് സ്ട്രീം സൃഷ്ടിക്കുകയും അവൾക്ക് ശരിക്കും ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്യുന്നു അതു ശരി അതിനാൽ ചില സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നുവെന്നതിനെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരായിരിക്കണം മാത്രമല്ല നമ്മുടെ സന്ദേശം ശരിക്കും വ്യക്തമായിരിക്കുകയും വേണം ഇന്നത്തെ ലോകത്ത് പുതിയ സിഗ്നലുകൾ ഉണ്ട് അവയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം രണ്ടാമത്തേത് സമയമാണ് എല്ലാം മിക്കപ്പോഴും നമ്മൾ കാണുന്നതെന്തെന്നാൽ നമുക്ക് എല്ലായ്പ്പോഴും പ്രതികരിക്കാൻ കഴിയും ചില ആളുകൾ ആ പ്രതികരണം പ്രതീക്ഷിക്കുന്നു അതേസമയം ചില ആളുകൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കില്ല സമയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ച് നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കണം എന്റെ ഗവേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം മീറ്റിംഗിന് ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു നന്ദി ഇ മെയിൽ അയയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ആഴ്ചയോ കഴിഞ്ഞ് ഇതേ ഇ മെയിൽ അയയ്ക്കുകയാണെങ്കിൽ ആളുകൾക്ക് എങ്ങനെ തോന്നും എന്നതിൽ കാര്യമായ വ്യത്യാസമുണ്ട് അവർ ആ നന്ദിയും ആയി കണക്റ്റു ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും ഇത് വെർച്വൽ ഹാൻഡ്ഷെയ്ക്കിന്റെ സിഗ്നൽ പോലെയായതിനാലാണ് ഇത് നമ്മുടെ വെർച്വൽ റൌണ്ടിൽ ഒരേ രീതിയിൽ ചെയ്യാൻ കഴിയില്ല അതിനാൽ ഞാൻ ഏതുതരം ഡിജിറ്റൽ ബോഡി ലാംഗ്വേജാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ എല്ലാവരേയും ഞാൻ പ്രോത്സാഹിപ്പിക്കും ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഞാൻ വ്യക്തമാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നുവെന്നും എനിക്ക് എങ്ങനെ ഉറപ്പാക്കാനാകും എന്നതിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ നമുക്ക് ശരീരഭാഷ എങ്ങനെ മനസ്സിലാക്കാമെന്നതാണ് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് നമ്മുടെ ശരീരഭാഷ വായിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ വരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നു തത്സമയ ഡിറ്റക്ടറുകൾക്ക് ഗവേഷകർ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കി ഓരോ വ്യക്തിയുടെയും കൈകളുടെയും വിരലുകളുടെയും പോസ് ഉൾപ്പെടെ തൽസമയം വീഡിയോയിൽ നിന്ന് ഒന്നിലധികം ആളുകളുടെ ശരീര പോസുകളും ചലനങ്ങളും മനസിലാക്കാൻ ഇവയ്ക്ക് കഴിയും വ്യക്തിഗത ചലനങ്ങൾ ട്രാക്കുചെയ്യാനുള്ള സാങ്കേതിക ശേഷി വളരെക്കാലമായി ഉണ്ട് എന്നാൽ കമ്പ്യൂട്ടറുകൾക്ക് ഒരു ജനക്കൂട്ടത്തിലെ വ്യക്തിഗത ആംഗ്യങ്ങളെ നോക്കിക്കാണാനും അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകൾ നടത്താനും കഴിയുന്ന ഈ ആശയം ഒരു വിപ്ലവകരമായ ആശയമാണ് 500 വീഡിയോ ക്യാമറകൾ ഉൾക്കൊള്ളുന്ന രണ്ട് നിലകളുള്ള ഡോമിൻറെ എന്ന പദം നിലനിർത്തി എന്നത് രസകരമാണ് പനോപ്റ്റിക്കോൺ ഒരു വാസ്തുവിദ്യാ രൂപകൽപ്പനയാണ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജെറമി ബെന്താം മുന്നോട്ടുവച്ച ആശയമാണ് ജയിലുകൾ മെൻറ്ൽ അസൈലം സ്കൂളുകൾ ആശുപത്രികൾ ഫാക്ടറികൾ എന്നിവയുടെ രൂപകൽപ്പനയ്ക്കുള്ള വിപ്ലവകരമായ ആശയം എന്ന നിലയിൽ ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് മധ്യകാല പീഡന മുറികളിൽ നിന്നും തടവറകളിൽ നിന്നും വ്യത്യസ്തമായ പൌരന്മാരെ നിയന്ത്രിക്കുന്നതിന് ഒരു സംവിധാനം ആവശ്യമായിരുന്നുഅതിനായാണ് ഈ ആശയം ആദ്യം നിലവിൽ വന്നത് പനോപ്റ്റിക്കോൺ ശക്തവും നൂതനവുമായ ആന്തരികവൽക്കരണം വാഗ്ദാനം ചെയ്തു ഇത് ഒറ്റ സെന്റിയിലൂടെ തടവുകാരെ നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെ നേടിയെടുത്തതാണ് ബെന്താമിന്റെ നിരന്തരമായ നിരീക്ഷണം ഒരു നിയന്ത്രണ സംവിധാനമായി പ്രവർത്തിച്ചു നിരന്തരമായ നിരീക്ഷണത്തിന്റെ ഒരു ബോധം ആന്തരികവൽക്കരിക്കപ്പെട്ടു ഇത് ആളുകളെയോ തടവുകാരെയോ സ്കൂൾ കുട്ടികളെയോ പെരുമാറ്റത്തിന്റെ ആധികാരികത മനസ്സിലാക്കാൻ പ്രാപ്തമാക്കി ഫൂക്കോയും ഈ പ്രത്യേക രൂപകൽപ്പനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവ അധികാരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും തമ്മിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള സാങ്കേതിക നിയന്ത്രണ രീതികളിൽ ഒന്നാണ് അതിനാൽ സാമൂഹ്യ നിയന്ത്രണ സംവിധാനങ്ങളെയും അച്ചടക്ക സാഹചര്യത്തിലുള്ള ആളുകളെയും ഫൂക്കോ എന്നറിയപ്പെടുന്നവ നമ്മൾ തുടർച്ചയായി ഉപേക്ഷിക്കുന്നു നമ്മുടെ ഡിജിറ്റൽ ബോഡി ഭാഷയും ഓൺ ലൈൻ സാന്നിധ്യവും റിക്രൂട്ട് ചെയ്യുന്നവരുടെ പ്രിയപ്പെട്ട ഉപകരണമായി മാറി പ്രത്യേകിച്ചും വ്യത്യസ്ത ഓൺലൈൻ സൈറ്റുകളുടെ ശക്തമായ കണക്റ്റിവിറ്റി ഉള്ളപ്പോൾ അത് ഒഴിവാക്കാനാവാത്ത ഡിജിറ്റൽ വ്യക്തിത്വം സൃഷ്ടിക്കുന്നു അതിനാൽ നമ്മുടെ ശരീരഭാഷ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഏതെങ്കിലും സാങ്കേതിക വിഭവങ്ങളുടെ ഉപയോഗത്തിലും പോസിറ്റീവ് ആയിരിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് നമ്മുടെ ട്വിറ്റർ അക്കൌണ്ടിൽ ഹാഷ് ടാഗുകൾ ഉപയോഗിക്കുന്ന രീതി വ്യത്യസ്ത സന്ദേശങ്ങൾക്ക് നമ്മൾ അയയ്ക്കുന്ന പ്രതികരണം കാലതാമസം ഉണ്ടോ അല്ലെങ്കിൽ ഉടനടി ആണോ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ദിവസത്തിലെ സമയം ദിവസത്തിന്റെ ഏത് സമയം ആണ് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കായി നമ്മൾ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ പിന്തുടരുന്ന ലിങ്കുകളും ആളുകളും നമ്മൾ പങ്കിടുന്ന സന്ദേശങ്ങളുടെ തരങ്ങൾ നമ്മുടെ സ്വന്തം നിർദ്ദേശങ്ങളിൽ വ്യത്യസ്ത മീഡിയ പ്ലാറ്റ്ഫോമുകൾ എത്ര തവണ നമ്മൾ ലിങ്കുചെയ്യുന്നു ഉദാഹരണത്തിന് പഴയ ട്വീറ്റുകൾ വീണ്ടും ട്വീറ്റ് ചെയ്യുന്നത് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിനെ നമ്മുടെ ലിങ്ക്ഡ് ഇൻ പോസ്റ്റുമായി ബന്ധിപ്പിക്കുന്നുണ്ടോ ലൈക്കുകളിലൂടെയും ഷെയറുകളിലൂടെയും അഭിപ്രായങ്ങളുടെ വൈവിധ്യങ്ങളോട് നമ്മുടെ മാധ്യമ സാന്നിധ്യം മറ്റ് ആളുകളോട് ആദരവ് കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണോ എന്നിങ്ങനെ പലതുമുണ്ട് അതിനാൽ ഇന്നത്തെ സാങ്കേതിക ലോകത്ത് ഡിജിറ്റൽ ബോഡി ലാംഗ്വേജിനെക്കുറിച്ചുള്ള ധാരണ പ്രധാനമാണെന്ന് പറയാം നമ്മുടെ ഡിജിറ്റൽ വ്യക്തിത്വം ക്രിയാത്മകമായി നിലനിർത്താനുള്ള നമ്മുടെ കഴിവും ഒരുപോലെ പ്രധാനമാണ് ഇത് ശരീരഭാഷയുടെ മറ്റൊരു വശത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നു സ്കൈപ്പിൽ ഒരു അഭിമുഖം അഭിമുഖീകരിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇത് ശരീരഭാഷയുടെ ഒരു പ്രത്യേക വശമാണ് ഇത് പിന്നീട് തത്സമയ സെഷനുകളിൽ എടുക്കാം